സുപ്രഭാതം നാം ഇതുവരെ ചർച്ച ചെയ്തത് ഒരു ഉൽപ്പന്നം എങ്ങനെ കൂടുതൽ മെച്ചമായി നിർമ്മിച്ചു അതിൽനിന്ന് ലാഭമുണ്ടാക്കാം എന്നാണ് ഇത് എക്കണോമി ഓഫ് സ്കെയിലും ആയി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നാം കണ്ടു പരിഷ്കൃത മെഷീനുകൾ ഉപയോഗിച്ച് വളരെ കൂടുതൽ അളവിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചാൽ ഓട്ടോമേഷൻറെ സഹായത്തോടെ വളരെയധികം ലാഭം നേടാൻ സാധിക്കും ഇതിനെയാണ് എക്കണോമി ഓഫ് സ്കെയിൽ എന്ന് വിളിക്കുന്നത് പക്ഷേ ഇരുപതാം നൂറ്റാണ്ട്ൻറെ രണ്ടാംപകുതിയിൽ പ്രാധാന്യം ലഭിച്ചു തുടങ്ങി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ വളരെ പ്രാമുഖ്യം ലഭിച്ച മറ്റൊരുതരം എക്കണോമി ഉണ്ട് അതാണ് എക്കണോമി ഓഫ് സ്കോപ്പ് ഇനി ഇതെന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാനായി നമുക്ക് മാനുഫാക്ചറിങ് എൻവിറോൺമെൻറ് അഥവാ നിർമ്മാണത്തിൻറെ സാഹചര്യം എന്താണെന്നു നോക്കാം ഇന്ന് മാനുഫാക്ചറിങ് എൻവിറോൺമെൻറ് വളരെ ഡൈനാമിക് അഥവാ ചലനാത്മകം ആണ് ഇതിനെകുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം നമുക്ക് ഒരു ഉൽപ്പന്നത്തിൻറെ ജീവിതചക്രം എന്താണെന്നു നോക്കാം അതായത് നിർമ്മാണത്തിൻറെ ആരംഭം മുതൽ ഉല്പന്നം കടന്നുപോകുന്ന വിവിധ ഘട്ടങ്ങളും നിർമ്മാണം പൂർത്തിയാക്കി വിപണിയിൽ വിൽപ്പനയ്ക്കായി എത്തുന്ന ഘട്ടവും ഒടുവിൽ ഇല്ലാതായിത്തീരുന്ന ഘട്ടവും പുതിയൊരു ഉൽപ്പന്നം ഉടലെടുക്കുന്ന ഘട്ടവും വീണ്ടും ഈ ഘട്ടങ്ങൾ എല്ലാം ആവർത്തിക്കുന്നതുംഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഉൽപ്പന്നത്തിൻറെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ആശയ ഗ്രഹണവും ഡിസൈൻ അഥവാ രൂപരേഖ തയ്യാറാക്കലും ആണ് അതിനുശേഷം ഉൽപ്പന്നം നിർമ്മിക്കാനാവശ്യമായ ഉപകരണങ്ങൾ ഫാക്ടറിയിൽ സ്ഥാപിക്കുകയാണ് വേണ്ടത് ഇതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും ഗുണനിലവാര പരിശോധനയ്ക്ക് ശേഷം ഉൽപ്പന്നം ഫാക്ടറിയിൽ നിന്നുംവിപണിയിലേക്ക് എത്തുകയും ചെയ്യുന്നു ഉൽപ്പന്നം വിറ്റു പോയതിനുശേഷം ഉപഭോക്താക്കളിൽ നടത്തിയ സർവ്വേകളിലൂടെ അവരുടെ ടെപ്രതികരണം ലഭ്യമാക്കുന്നു കൂടാതെ തുടർച്ചയായ ഗവേഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നു കൂടുതൽ മെച്ചപ്പെട്ട മെറ്റീരിയൽ നിർമ്മാണ പ്രക്രിയകൾ മുതലായവയിലൂടെ പുതിയ കുറേക്കൂടി മെച്ചപ്പെട്ടതും നിർമ്മാണച്ചെലവ് കുറഞ്ഞതുമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നു ഉൽപ്പന്നം നിർമ്മാണം ആരംഭിച്ചു വിപണിയിൽ വിൽക്കപ്പെടുന്നത് വരെയുള്ള നിശ്ചിത ജീവിത സമയമുണ്ട് മാനുഫാക്ചറിങ് സിസ്റ്റംസ് ഉൽപ്പന്നത്തിൻറെ ഈ ജീവിതസമയത്തിൽ വളരെ നിർണായകമാണ് ഇനി ഈ അവസ്ഥയ്ക്ക് എന്തു സംഭവിക്കുന്നു എന്ന് നോക്കാം ഇവിടെ നമുക്ക് എക്കണോമി ഓഫ് സ്കോപ്പും അതിൻറെ ലക്ഷണങ്ങളും ആണുള്ളത് ഗവേഷണ പുരോഗതിയിലൂടെ തുടർച്ചയായി ഉൽപന്നങ്ങളിൽ വികാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പഴയ ഉൽപന്നങ്ങൾക്ക് പകരം പുതിയ ഉൽപ്പന്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് ഉത്പന്നങ്ങളുടെ ജീവിതചക്രം വളരെ കുറഞ്ഞു കൊണ്ടിരിക്കുന്നു കംപ്യൂട്ടർ വിപണിയിൽ നോക്കിയാൽ ഓരോ ആറു മാസത്തിലും കമ്പ്യൂട്ടറിൻറെ പുതിയ പതിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു ക്യാബിനറ്റ് പവർ സപ്ലൈ മദർബോർഡ് റാം ഡിസ്പ്ലേ സോഫ്റ്റ്വെയർ തുടങ്ങി എല്ലാ ഘടകങ്ങൾഇലും മാറ്റങ്ങൾ വരുന്നു മദർബോർഡ് പോലെ ആധുനികമായ ഒരു ഉപകരണം ഡിസൈൻ ചെയ്തു നിർമ്മിച്ച് വിപണിയിൽ എത്തുമ്പോഴേക്കും ആറുമാസത്തിനുള്ളിൽ അതു കാലഹരണപ്പെട്ടു പോകുന്നു പുതിയ ഉൽപ്പന്നം പഴയതിന് പകരമായി എത്തുന്നു അതിനാൽ ആറുമാസത്തിനുള്ളിൽ ഉൽപ്പന്നം നിർമ്മിച്ച് അത് വിറ്റഴിച്ച് ലാഭം ഉണ്ടാകേണ്ടതുണ്ട് ഉൽപ്പന്നത്തിൻറെ ജീവിതകാലം വളരെയധികം ചുരുങ്ങിപ്പോയി എന്നർത്ഥം ഉൽപ്പന്നത്തിൻറെ ജീവിതകാലം വളരെ കുറവാണ് എന്നുള്ളതിനാൽ നിർമ്മാണത്തിൻറെ ആരംഭം മുതൽ ഉൽപാദനം വരെയുള്ള എല്ലാ പ്രവൃത്തികളും ത്വരിതപ്പെടുത്തേണ്ടത് ഉണ്ട് പ്രവർത്തനങ്ങൾ ത്വരിതപെടുത്താൻ വളരെ പെട്ടെന്ന് റീകോൺഫിഗർ ചെയ്യാൻ കഴിയുന്ന മാനുഫാക്ചറിംഗ് സിസ്റ്റം ഇല്ലാതെ സാധ്യമല്ല അതായത് ഇന്ന് ഒരു തരത്തിലുള്ള പിസിബി യും നാളെ വളരെ വ്യത്യസ്തമായ ആയ മറ്റൊരു പിസിബി യും നിർമ്മിക്കാനാവശ്യമായ വളരെ പെട്ടെന്ന് റീകോൺഫിഗർ ചെയ്യാൻ സാധിക്കുന്ന മെഷീനുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് റീകോൺഫിഗർ ചെയ്യാൻ ഓട്ടോമേഷൻറെ സഹായം ആവശ്യമാണ് ഇനി ഇതിൻറെ വേറൊരു വശം നോക്കാം X ഉൽപ്പന്നം നിർമ്മിക്കാൻ കാര്യക്ഷമമായ ഒരു മെഷീൻ ഉണ്ടെന്നിരിക്കട്ടെ X ഉൽപ്പന്നം വളരെ വേഗത്തിൽ കാലഹരണപ്പെട്ടു പോകുകയാണെങ്കിൽ ഈ മെഷീനു വേണ്ടി വളരെയധികം പണം ചെലവഴിക്കേണ്ടത് ഉണ്ടോ രണ്ടാമതായി ഉൽപ്പന്നത്തിന് മതിയായ ആവശ്യകത ഇല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് സിസ്റ്റം പെട്ടെന്ന് റീകോൺഫിഗർ ചെയ്തു പുതിയൊരു വിപണിക്ക് വേണ്ടി Y ഉൽപ്പന്നം ഇതേ മെഷീൻ ഉപയോഗിച്ച് നിർമ്മിക്കാൻ ആകുമോ മാനുഫാക്ചറിംഗ് സിസ്റ്റം റീകോൺഫിഗർ ചെയ്തു മൂന്ന് വ്യത്യസ്ത വിപണികൾക്ക് ആവശ്യമായ മൂന്ന് വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ഒരേ മെഷീൻ ഉപയോഗിച്ച് നിർമ്മിക്കാൻ ആകുമോ ഇത് സാധ്യമാക്കാൻ റീകോൺഫിഗറേഷൻ ആവശ്യമുണ്ട് ഇതാണ് എക്കണോമി ഓഫ് സ്കോപ്പ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഓട്ടോമേഷൻ സിസ്റ്റംസ് എക്കണോമി ഓഫ് സ്കോപ്പിനെ വളരെയധികം വർദ്ധിപ്പിക്കും നമുക്ക് വിവിധതരം പ്രൊഡക്ഷൻ സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം പ്രൊഡക്ഷൻ സിസ്റ്റംസ് രണ്ടുതരമുണ്ട് കണ്ടിന്യൂസ് പ്രോസസ് ഡിസ്ക്രിറ്റ് മാനുഫാക്ചറിങ് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുന്നവയാണ് ഡിസ്ക്രിറ്റ് മാനുഫാക്ചറിങ് ഉദാഹരണം വാച്ച് സൈക്കിൾ തുടങ്ങിയവ നേരെമറിച്ച് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഓയിൽ സ്റ്റീൽ സിമൻറ് മുതലായവയാണ് കണ്ടിന്യൂസ് പ്രോസസ്ൻറെ ഉദാഹരണങ്ങൾ ഇനി കണ്ടിന്യൂസ് പ്രോസസ്സിനെ വീണ്ടും രണ്ടായി തിരിക്കാം കണ്ടിന്യൂസ് ഫ്ലോ ബാച്ച് എന്നിവയാണവ കണ്ടിന്യൂസ് ഫ്ലോ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഉൽപ്പന്നത്തിൻറെ നിർമ്മാണം വളരെ കൂടുതൽ സമയത്തേക്ക് തുടർച്ചയായി നീണ്ടുപോകുന്ന അവസ്ഥയാണ് എണ്ണ ശുദ്ധീകരണ ശാല സ്റ്റീൽ പ്ലാൻറ് തുടങ്ങിയവയാണ് ഇതിന് ഉദാഹരണങ്ങൾ ഇതുപോലുള്ള വലിയ ഫാക്ടറികളിൽ നാലോ അഞ്ചോ ഉൽപ്പന്നങ്ങൾ വരെ നിർമ്മിക്കപ്പെടുന്നതാണ് ഉദാഹരണത്തിന് എണ്ണശുദ്ധീകരണശാലയിൽ നിന്നും ഗ്യാസോലിൻ പെട്രോൾ മണ്ണെണ്ണ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് അടുത്തതായി ബാച്ച് എന്താണെന്ന് നോക്കാം ബാച്ച് പ്രോസസ്സിൽ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം കൂടുതലും അതേ സമയം അളവു് കുറവും ആയിരിക്കും ഉദാഹരണത്തിന് ഔഷധനിർമ്മാണം അഥവാ ഫാർമസ്യൂട്ടിക്കൽസ് പെയിൻറ് തുടങ്ങിയവ ഇവ കണ്ടിന്യൂസ് പ്രോസസ് തന്നെയാണ് പക്ഷേ കുറഞ്ഞ അളവിൽ മാത്രമാണ് നിർമാണം നടക്കുന്നത് ഡിസ്ക്രിറ്റ് മാനുഫാക്ചറിങ്ലും ഇതേ വർഗ്ഗീകരണം നിലവിലുണ്ട് മാസ് മാനുഫാക്ചറിങ് ജോബ് ഷോപ്പ് എന്നിവയാണവ മാസ് മാനുഫാക്ചറിങ്ഇൽ വൈവിധ്യം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ കൂടുതൽ അളവിൽ നിർമ്മിക്കപ്പെടുന്നു ഉദാഹരണത്തിന് സൈക്കിൾ മിക്സർ ടെലിവിഷൻ മുതലായവ ജോബ് ഷോപ്പ് നേരെ തിരിച്ചാണ് ഉദാഹരണമായി നമുക്ക് മെഷീൻ ഫാക്ടറി എടുക്കാം ഇവിടേക്ക് വരുന്ന ഓരോ ഉപഭോക്താവും ഓരോ രൂപരേഖയും ആയാണ് വരുന്നത് ഓരോ ഉപഭോക്താവും അവരുടെ 100 മുതൽ 2000 യൂണിറ്റ് വരെ ഉൽപ്പന്നങ്ങൾക്കായി ഓർഡർ നൽകുന്നു ഇവിടെ ഓരോ ഉപഭോക്താവും വ്യത്യസ്ത ജ്യാമിതിയും വ്യത്യസ്തങ്ങളായ നിർമ്മാണ പ്രക്രിയകളും ഉള്ള ഉൽപന്നങ്ങളുടെ ആവശ്യവുമായാണ് വരുന്നത് ഇതിനു വേണ്ടിവരുന്ന നിർമാണ പ്രക്രിയകൾ ടർണിങ് ഡ്രില്ലിങ് ഗ്രൈൻഡിങ് മില്ലിങ് തുടങ്ങിയവ ആവാം ഈ പ്രക്രിയകളെല്ലാം ഓരോ ജോബിനും വ്യത്യസ്ത ക്രമത്തിൽ പ്രയോഗിക്കേണ്ടി വരും ഇത്രയും ആണ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻറെ വർഗ്ഗീകരണം ഇവ ഒന്ന് ചിട്ടപ്പെടുത്തിയാൽ ക്വാണ്ടിറ്റി വെറൈറ്റി ചാർട്ടിൽ എങ്ങനെ കാണുന്നു എന്നു മനസ്സിലാക്കാം ഈ ഗ്രാഫിൽ ഒരുവശത്ത് ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന ഓരോ തരം ഉൽപ്പന്ന ത്തിൻറെയും ക്വാണ്ടിറ്റിയും മറുവശത്ത് പലതരം ഉൽപ്പന്നങ്ങളുടെ വെറൈറ്റിയും കാണിച്ചിട്ടുണ്ട് ഇതിൽ കണ്ടിന്യൂസ് ഫ്ലോ പ്രോസസ്സ് നോക്കാം ഇതിൽ ഉൽപ്പന്നത്തിൻറെ വെറൈറ്റി ഏറ്റവും കുറവും പക്ഷേ ക്വാണ്ടിറ്റി ഏറ്റവും കൂടുതലുമാണ് എണ്ണ ശുദ്ധീകരണശാല ഇരുമ്പുരുക്ക് വ്യവസായം ചില രാസവസ്തുക്കൾ സിമൻറ് കടലാസ് രാസവളം മുതലായവ കണ്ടിന്യൂസ് ഫ്ലോ പ്രോസസ്സ്ന് ഉദാഹരണങ്ങളാണ് ഇതാണ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൻറെ വർഗ്ഗീകരണം രണ്ടു കാര്യങ്ങൾക്ക് അനുസൃതമായാണ് ഈ വർഗീകരണം നടത്തുന്നത് ആദ്യത്തേത് ഉൽപ്പന്നത്തിൻറെ അളവ് അഥവാ ക്വാണ്ടിറ്റി രണ്ടാമത്തേത് എത്രതരം ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്നത് അടുത്തതായി ഓട്ടോമേഷൻ സിസ്റ്റതിൻറെ വർഗ്ഗീകരണത്തെക്കുറിച്ചും ഓരോ വ്യവസായത്തിനും അനുയോജ്യമായ ഓട്ടോമേഷൻ സിസ്റ്റത്തെക്കുറിച്ചും മനസ്സിലാക്കാം ഓട്ടോമേഷൻ സിസ്റ്റം നാലായി തരം തിരിക്കപ്പെട്ടിരിക്കുന്നു ഫിക്സഡ് ഓട്ടോമേഷൻ പ്രോഗ്രാമബൾ ഓട്ടോമേഷൻ ഫ്ലെക്സിബിൾ ഓട്ടോമേഷൻ ഇൻറഗ്രേറ്റഡ് ഓട്ടോമേഷൻ എന്നിവയാണവ ആദ്യമായി ഫിക്സഡ് ഓട്ടോമേഷൻറെ ലക്ഷണങ്ങൾ നോക്കാം ആദ്യത്തെ ലക്ഷണം വളരെ കൂടുതൽ അളവിൽ ഉള്ള നിർമാണമാണ് അതിനാൽ ഓട്ടോമേഷൻ പ്രത്യേക നിർമ്മാണത്തിനായി ട്യൂൺ ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ ലക്ഷണം ഇക്കാര്യത്തിനു മാത്രമായി സമർപ്പിച്ച ഉപകരണങ്ങൾ ആണ് ഇവിടെ ഉപകരണങ്ങളിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയില്ല ഉദാഹരണത്തിന് ഇരുമ്പുരുക്ക് വ്യവസായം ഉൽപ്പന്നത്തിൽ വളരെ ചെറിയ വ്യത്യാസങ്ങളെ വരുന്നുള്ളൂ അതിനാൽ തന്നെ അധികം അയവുകൾ ഇല്ലാത്ത പ്രത്യേക ഉപകരണങ്ങൾ ഇതിനായി സമർപ്പിച്ചാൽ വളരെയധികം ലാഭം ആണ് ഉണ്ടാവുക ഇതിനാൽ വളരെ സ്ഥിരതയാർന്ന കാര്യക്ഷമമായ പ്രവർത്തനം ഇവിടെ കാണാൻ സാധിക്കും ദീർഘകാലം നിലനിൽക്കുന്ന ബ്ലാസ്റ് ഫർണസ് സ്റ്റീൽ മെൽറ്റിങ് ഫർണസ് കണ്ടിന്യൂസ് കാസ്റ്റർ തുടങ്ങിയ ഉപകരണങ്ങൾക്ക് വളരെയധികം വസ്തുക്കളും ഊർജ്ജവും താങ്ങാനാവും എന്നതിനാൽ അവയെ കാര്യക്ഷമമായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ട്യൂൺ ചെയ്യാവുന്നതാണ് ഫാക്ടറിയെ രണ്ടായി തരം തിരിക്കാം കണ്ടിന്യൂസ് ഫ്ലോ ഡിസ്ക്രിറ്റ് മാസ് പ്രൊഡക്ഷൻ എന്നിവയാണവ ഒരു ഒരു സൈക്കിളിൻറെ ഭാഗങ്ങൾ ഒരു സാധാരണ വാച്ച്നേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കും ഫിക്സഡ് ഓട്ടോമേഷൻറെ ഉദാഹരണങ്ങൾ നോക്കിയാൽ പ്രോസസ് ഓട്ടോമേഷൻ കൺവെയർ പെയിൻറ് ഷോപ്പ് ട്രാൻസ്ഫർ ലൈൻ തുടങ്ങിയവയാണ് എണ്ണ ശുദ്ധീകരണശാലയുടെയും മറ്റും ഓട്ടോമേഷൻ കണ്ട്രോൾ കൺവെയർ തുടങ്ങിയവ ഇടയ്ക്കിടെ മാറ്റേണ്ട ആവശ്യമില്ല അവ ഫിക്സഡ് ഓട്ടോമേഷൻ ആണ് പെയിൻറ് ഷോപ്പ്ൻറെ കാര്യത്തിൽ പെയിൻറ് ചെയ്യേണ്ട വസ്തു ഒരു സ്ഥലത്ത് അത് വച്ചതിനുശേഷം ജെറ്റ് സ്പ്രേ ചെയ്താൽ മതിയാകും ഈ ലളിതമായ പ്രക്രിയയിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല ട്രാൻസ്ഫർ ലൈൻറെ കാര്യമെടുത്താൽ മാരുതി 800ൻറെ ഭാഗങ്ങൾക്ക് വളരെ കൂടുതൽ മാറ്റങ്ങളൊന്നും വന്നിരുന്നില്ല അതിനാൽ പ്രത്യേക ഉപകരണങ്ങൾക്ക് മുതൽമുടക്ക് നടത്തിയാൽ അത് അർത്ഥവത്താണ് അടുത്തതായി പ്രോഗ്രാമബൾ ഓട്ടോമേഷൻ നോക്കാം ചില ഉദാഹരണങ്ങളിൽ ഇടയ്ക്കിടെ ഉപകരണങ്ങളിൽ മാറ്റം വരുത്തേണ്ടതാണ് ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ആകാം മറ്റു ചിലപ്പോൾ മാസത്തിലൊരിക്കൽ ആകാം ഈ മാറ്റം അനിവാര്യമായി വരിക അതിനാൽ ഇവ പ്രോഗ്രാമബൾ ആയിരിക്കുന്നതാണ് നല്ലത് പ്രവർത്തികളുടെ ക്രമം മാറ്റേണ്ടിവരും എന്നതിനാൽ ഇവിടെ ഇലക്ട്രോണിക് കൺട്രോളുകൾ ആയിരിക്കും ഉണ്ടാവുക ആദ്യം പ്രൊഡക്ഷൻ വേണ്ടി ന്യൂമറിക്കൽ കണ്ട്രോൾ ആണ് നിലവിൽ വന്നത് രണ്ടുതരം പ്രോഗ്രാമബൾ കൺട്രോളുകൾ ബാച്ച് പ്രോസസ് മാസ് പ്രൊഡക്ഷൻ എന്നിവയാണ് ചില ഉൽപ്പന്നങ്ങളിൽ മാസ് പ്രൊഡക്ഷൻ വേണ്ടിവരും അവയുടെ വൈവിധ്യവും കൂടുതലായിരിക്കും ഈ സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും ഒരു ഓപ്പറേറ്ററുടെ അല്ല മറിച്ച് ഒരു എൻജിനീയറുടെ സഹായത്തോടെ ഈ വേഗത കൈവരിക്കാനാകും മാസത്തിലൊരിക്കൽ ഈ മാറ്റം വരുത്തണമെങ്കിൽ ഓട്ടോമേഷനിൽ ഒരു ദിവസത്തിനകം മാറ്റം വരുത്തണം ഇവിടെ ഉദാഹരണങ്ങൾ ന്യൂമെറിക്കൽ കൺട്രോൾഡ് മെഷീൻ റോബോട്ട് അസംബ്ലി തുടങ്ങിയവയാണ് റോബോട്ടിൻറെ പല ഭാഗങ്ങൾ പല ക്രമത്തിൽ കൂട്ടിച്ചേർക്കാനും മാറ്റങ്ങൾ വരുത്താനും സാധിക്കും അടുത്തതായി ഫ്ലെക്സിബിൾ ഓട്ടോമേഷൻ ആണ് എക്കണോമി ഓഫ് സ്കോപ്പ് വർധിക്കുന്നതോടെ വ്യവസായങ്ങളിലും വളരെ വേഗത്തിൽ മാറ്റങ്ങൾ ആവശ്യമായിവരും ഒരേ ദിവസം തന്നെ പലതവണ ഓപ്പറേറ്റർമാർക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും മാറ്റങ്ങൾക്ക് കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ നിഷ്ക്രിയ സമയം വർദ്ധിക്കും നിർമ്മാണസമയം വർധിപ്പിക്കാനായി ഗ്രാഫിക്കൽ യൂസർ ഇൻറർഫേസ് ഉപയോഗിച്ചുകൊണ്ട് മെഷീനുകളിൽ കമ്പ്യൂട്ടർ കണ്ട്രോൾ സാധ്യമായിരിക്കുന്നു ഈ സൌകര്യം ഓപ്പറേറ്റർമാർക്ക് സഹായകമാകും ഈ മാറ്റങ്ങളിൽ കുറെയൊക്കെ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്തു വച്ചാൽ ഓപ്പറേറ്റർമാർക്ക് ചില കോണ്ഫിഗറേഷനുകള് എടുത്തു ചില ഘടകങ്ങൾ ക്രമീകരിച്ച് ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആയി പ്രവർത്തിപ്പിച്ച് മാറ്റങ്ങൾ വേഗത്തിൽ വരുത്താൻ സാധിക്കും മെറ്റീരിയൽ കൈകാര്യം ചെയ്യലും പ്രോഗ്രാം ചെയ്യപ്പെടണം ക്രമം മാറുമ്പോൾ ഘടകങ്ങൾക്ക് ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കേണ്ടിവരും മെറ്റീരിയൽ ഹാൻഡ്ലിങ് ഉപകരണം ഫിക്സഡ് ആയാൽ ഘടകങ്ങൾ ഒന്നും അനായാസമായി സ്ഥാനം മാറ്റാനാവില്ല അതിനാൽ പ്രോഗ്രാമബൾ മെറ്റീരിയൽ ഹാൻഡ്ലിങ് ആവശ്യമാണ് ഇവിടെ ഫാക്ടറി രണ്ടുതരത്തിൽ ആകാം ജോബ് ഷോപ്പ് ബാച്ച് പ്രോസസിംഗ് ജോബ് ഷോപ്പിൽ ഓരോ ഭാഗത്തിനും വ്യത്യസ്ത ക്രമം ആവശ്യമുണ്ട് ബാച്ച് പ്രോസസിംഗ് ഇൽ പ്രവർത്തനങ്ങളുടെ ക്രമത്തിൽ മാറ്റം ഉണ്ടാകും ഉദാഹരണങ്ങൾ സി എൻ സി മെഷീനിങ്ങ് സെൻറർ സ്വയം പ്രേരിത വാഹനങ്ങൾ അഥവാ ഓട്ടോമാറ്റിക് ഗൈഡഡ് വെഹിക്കിൾസ് തുടങ്ങിയവയാണ് ഇനി ഫിക്സഡ് പ്രോഗ്രാമബൾ ഫ്ലെക്സിബിൾ ഇവ എല്ലാം തന്നെ ഒരു നിയന്ത്രിത പരിധിയിൽ മാത്രമേ ഓട്ടോമേഷൻ നടപ്പിലാക്കുന്നുള്ളൂ അതായത് ഒന്നോരണ്ടോ ഉപകരണം മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഷോപ്പിൻറെ ഒരു ഭാഗത്തു മാത്രം നടപ്പിലാക്കുന്ന ഓട്ടോമേഷന്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇനി നിങ്ങൾ ഒരു ഫാക്ടറി മുഴുവൻ ആയി നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ ഓട്ടോമേഷൻസ്ഉം പരസ്പരം ബന്ധിപ്പിച്ചു ഏകോപിപ്പിക്കണ്ടിവരും ഇതിനെയാണ് ആണ് ഇൻറഗ്രേറ്റഡ് ഓട്ടോമേഷൻ എന്ന് വിളിക്കുന്നത് ഇതിൻറെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നു നോക്കാം ഇവയാണ് ഓട്ടോമേഷനിൽ വച്ച് ഏറ്റവും ചിലവേറിയത് വളരെ പുരോഗമിച്ച ഒപ്ടിമൈസിംഗ് അൽഗോരിതങ്ങളാണ് ഇതിൻറെ ഒരു സവിശേഷത വളരെ മികച്ച മോഡലുകൾ ഉപയോഗിച്ച് വളരെയധികം ഗണിതശാസ്ത്രപരമായ അനുമാനങ്ങൾ ഈ മെഷീനുകൾക്ക് ചെയ്യാൻ സാധിക്കും അന്തർദേശീയ വ്യവഹാരങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ള ചുരുക്കം ചില വെണ്ടർസ് മാത്രമേ ഈ മേഖലയിൽ ഉള്ളൂ സ്റ്റീൽ നിർമ്മാണ രംഗത്ത് വിദഗ്ധോപദേശം നൽകുന്ന കാസ്റ്റർ ആൽപൈൻ എന്ന അന്തർദേശീയ കമ്പനി ഇതിനുദാഹരണമാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിത അൽഗോരിതങ്ങളും അറിവും ഉപയോഗിച്ച് ഈ കമ്പനികൾ ഫാക്ടറികൾക്ക് വിദഗ്ധ ഉപദേശം നൽകുന്നു അതുകൂടാതെ ഇവയുടെ ഉപയോഗങ്ങൾ എല്ലാം കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു ക്രമേണ നിർമ്മാണവും നിർവ്വഹണവും ഏകോപിപ്പിക്കുക എന്നതാണ് ഓട്ടോമേഷനിലെ പ്രവണത ഉദാഹരണത്തിന് മാർക്കറ്റിംഗ് ഓഫീസുകളിലെ ബുക്കിംഗ് ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും ബിസിനസുമായി ബന്ധപ്പെട്ട എല്ലാകാര്യങ്ങളും വളരെയധികം ഏകോപിപ്പിച്ചു പ്രവർത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് കൂടുതൽ ഓർഡറുകൾ ലഭിച്ചാൽ മെറ്റീരിയൽ കരസ്ഥമാക്കുക നിർമ്മാണ സൌകര്യങ്ങൾ വർധിപ്പിക്കുക ഇൻവൻററി കപ്പാസിറ്റിയിൽ മാറ്റം വരുത്തുക തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം ഒരു വാദ്യവൃന്ദം പോലെ പ്രവർത്തിക്കും ഇതിനാലാണ് ഇൻറഗ്രേറ്റഡ് ഓട്ടോമേഷൻ എന്ന പേര് ലഭിച്ചത് എല്ലാത്തരം ഫാക്ടറികളിലും ഈ ഓട്ടോമേഷൻ നടപ്പാക്കാം എങ്കിലും വളരെ ചെലവേറിയതിനാൽ വലിയ ഫാക്ടറികൾ മാത്രമാണ് ഇത് നടപ്പിലാക്കുന്നത് ചെറിയ ഫാക്ടറിക്ക് ഈ ചെലവ് താങ്ങാൻ സാധിക്കണമെന്നില്ല ഉദാഹരണം കെമിക്കൽ പ്രോസസ് ഓട്ടോമേഷൻ കമ്പ്യൂട്ടർ ഇൻറഗ്രേറ്റഡ് മാനുഫാക്ചറിങ് മുതലായവ പലതരം ഫക്ടറികളിലേക്ക് പോകുമ്പോൾ പലതരം ഓട്ടോമേഷൻ ആവശ്യമാണെന്ന് ഇതുവരെ നാം കണ്ടു സ്റ്റീൽ പ്ലാൻറ്ലെ മെഷീനുകൾക്ക് ഒരു പ്രത്യേക ഭാഗത്ത് ഫിക്സെഡ് ഓട്ടോമേഷനും പല ഭാഗങ്ങൾ തമ്മിലുള്ള ഏകോപനത്തിന് ഇൻറഗ്രേറ്റഡ് ഓട്ടോമേഷനും ആവശ്യമായി വരും സ്റ്റീൽ പ്ലാൻറ്ലെ ഭാഗങ്ങളായ സ്റ്റീൽ മെൽറ്റിങ് ഷോപ്പിൻറെയും കണ്ടിന്യൂസ് കാസ്റ്റർൻറെയും കാര്യം ആദ്യം എടുക്കുക ഇവ രണ്ടും തമ്മിലുള്ള സമയക്രമീകരണം തീർച്ചയായും ചെയ്തിരിക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതിൽ തീക്ഷ്ണമായ ലോഹം കാസ്റ്റർലേക്ക് പോകുന്ന വഴിയിൽ പല പ്രശ്നങ്ങൾ കാരണം പലയിടത്തും താമസം നേരിടും ലോഹം ഒരു നിശ്ചിത താപനിലയിൽ തന്നെ കാസ്റ്റർലേക്ക് എത്തേണ്ടതുണ്ട് അതല്ലാതെ തണുത്തു കഴിഞ്ഞ ലോഹമാണ് കാസ്റ്റർലേക്ക് എത്തുന്നത് എങ്കിൽ ഉൽപ്പന്നമായി ലഭിക്കുന്ന സ്റ്റീൽ കുറഞ്ഞ ഗുണനിലവാരമുള്ളതായിരിക്കും ഉൽപ്പന്നം കുറഞ്ഞ വിലയിൽ വിൽക്കേണ്ടതായി വരും സ്റ്റീൽ ഫാക്ടറികൾക്ക് ഒരു തരത്തിലുള്ള സങ്കലനം ആണ് വേണ്ടത് അതേസമയം ഒരു സൈക്കിൾ നിർമ്മാണ ഫാക്ടറിയിലേക്ക് ആളുകൾക്ക് ഓൺലൈനായി അവരുടെ ഇഷ്ടപ്പെട്ട ഘടകങ്ങൾ യോജിപ്പിച്ച് അവർക്കായി ഭേദഗതി ചെയ്യപ്പെട്ട സൈക്കിളുകൾ ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതാണ് സീറ്റ് ഹാൻഡിൽ ബാർ ചക്രത്തിൻറെ വ്യാസം ടയർ ടൈപ്പ് ഇവയെല്ലാം തിരഞ്ഞെടുത്തു അവരുടെ ഇഷ്ടപ്രകാരം ഉള്ള സൈക്കിളുകൾ നിർമ്മിച്ചെടുക്കാൻ ആകും അതിനാൽ ഇപ്പോൾ ഓരോ ഓർഡറും ഉപഭോക്താവിൻറെ നിർദ്ദേശാനുസരണം ഭേദഗതി ചെയ്യപ്പെട്ടതാണ് മാസ് മാനുഫാക്ചറിംഗ് നടത്തിയിരുന്ന ഫാക്ടറി ഇന്ന് അതേ അളവിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു പക്ഷേ വിപണി പിടിച്ചടക്കാൻ ആയി വൈവിധ്യം വർദ്ധിപ്പിക്കുന്നു വളരെ പുരോഗതി ആർജ്ജിച്ച ഓട്ടോമേഷൻറെ സഹായത്താലാണ് ഇത് സാധ്യമാവുക ഇതോടെ ഇന്നത്തെ ലക്ചർ അവസാനിച്ചിരിക്കുന്നു ഇതുവരെ നാം എന്തൊക്കെ ചർച്ച ചെയ്തു എന്ന് നോക്കാം ആദ്യമായ് നാം ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനെ നിർവചിച്ചു ഓട്ടോമേഷൻ കണ്ട്രോൾനെകുറിച്ചും ചർച്ച ചെയ്തു നമ്മളിൽ ഭൂരിഭാഗം പേർക്കും കൺട്രോൾ കോഴ്സിനെ കുറിച്ച് അറിവുള്ളതിനാൽ കൺട്രോൾ യഥാർത്ഥത്തിൽ ഓട്ടോമേഷൻറെ ഒരു ഭാഗം ആണെന്ന് അറിയാം യഥാർത്ഥത്തിൽ ഇൻപുട്ട് നൽകി ഇൻപുട്ട് നൽകി ഔട്ട്പുട്ട് ലഭിക്കുന്ന ഓരോ മിനുട്ടും ഉള്ള പ്രവർത്തനമാണ് കൺട്രോളിൽ നടക്കുന്നത് അതേസമയം ഭൂമിശാസ്ത്രപരമായും ദൈർഘ്യത്തിലും പ്രവർത്തിപരമായും ഓട്ടോമേഷന് കൂടുതൽ വ്യാപ്തി ഉണ്ട് ആ നിർവചനം എന്താണെന്ന് നാം കണ്ടു അതിനുശേഷം കോഴ്സ്ൻറെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നാം നാം നിർവചിച്ചു ഇതിൽ ഓട്ടോമേഷൻറെ പ്രസക്തിയും ഇതെങ്ങനെ ലാഭം ഉണ്ടാക്കുന്നതിൽ സഹായിക്കുന്നു എന്നും നാം കണ്ടു എക്കണോമി ഓഫ് സ്കെയിൽ എക്കണോമി ഓഫ് സ്കോപ്പ് എന്നിവ തമ്മിലുള്ള ഉള്ള വ്യത്യാസം വിവിധതരം പ്രൊഡക്ഷൻ സിസ്റ്റംസ് ഓട്ടോമേഷൻ സിസ്റ്റംസ് ഇവയെല്ലാം ചർച്ച ചെയ്തു ഇനി നിങ്ങൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ എങ്ങനെ എക്കണോമി ഓഫ് സ്കോപ്പ് വർധിപ്പിക്കുന്നുവെന്നതിന് ഉദാഹരണങ്ങൾ നൽകുക ഒരു വ്യാവസായിക സന്ദർഭം എങ്ങനെ നിർമാണച്ചെലവ് കുറയ്ക്കുന്നു എന്നും പറയുക കൺട്രോളിൽ നിന്ന് ഇത് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നും പറയുക പ്രത്യേക വ്യാവസായിക സന്ദർഭങ്ങളിൽ വിവിധതരം ഓട്ടോമേഷൻ സിസ്റ്റംസ്ൻറെ അനുയോജ്യത വിവരിക്കുക ഇത്രയുമാണ് ഇന്നത്തെ ചർച്ച എല്ലാവർക്കും നന്ദി അടുത്തതായി നാം ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ സിസ്റ്റംസ്ൻറെ രൂപകല്പന ചർച്ച ചെയ്യുന്നതായിരിക്കും